ഇന്നത്തെ പ്രഭാഷണം ഇന്റഗ്രൽ ഇക്വേഷനുകളെക്കുറിച്ചും ഒരു ഇന്റഗ്രൽ സമവാക്യത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ആമുഖത്തെക്കുറിച്ചും ആയിരിക്കും അതിനാൽ ഒരു അവിഭാജ്യ സമവാക്യം എന്താണെന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള മറ്റേതൊരു സമവാക്യത്തിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യസ്തമാണെന്നും നിങ്ങൾക്ക് ഒരു ആശയം നൽകാൻ ഞങ്ങൾ ഇത് വളരെ ലളിതമാക്കും അതിനാൽ ഇത് നോക്കാൻ ഞാൻ എന്തുചെയ്യും ഞങ്ങൾ ഇലക്ട്രോഡൈനാമിക്സിലേക്ക് പോലും പോകില്ല ഞങ്ങൾ ഒരു സ്റ്റാറ്റിക് കേസ് എടുക്കും 9 ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നിങ്ങൾക്കറിയാവുന്ന സമവാക്യം ചാർജ്ജ് മൂലമുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾ പരിഹരിക്കും അതിനാൽ നമുക്ക് ഒരു ലൈൻ ചാർജ് പ്രശ്നം നോക്കാം അതിനാൽ ഒരു ലൈൻ ചാർജ് കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് x ഉണ്ട് ഇതാണ് എന്റെ അച്ചുതണ്ട് ഇവിടെ ഞാൻ ഒരു കണ്ടക്ടർ ഇട്ടിരിക്കുന്നു ഇതൊരു ചാലകമാണ് ഇവിടെ വ്യാസം 2a ആണെന്ന് പറയുന്നു അടിസ്ഥാനപരമായി ഞാൻ y അക്ഷത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു നേർത്ത വയർ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക അതൊരു സ്റ്റാറ്റിക്സ് പ്രശ്നമാണ് അതിനാൽ സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഫീൽഡുകളൊന്നുമില്ല ഞാൻ ചെയ്തത് ഒരു സ്ഥിരമായ വോൾട്ടേജിലേക്ക് ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ നമുക്ക് അത് ലളിതമാക്കാം നമുക്ക് അത് 1 വോൾട്ട് ആക്കാം അതിനാൽ y അക്ഷത്തിൽ കിടക്കുന്ന ഈ വയറിന് കുറച്ച് നീളമുണ്ട് ഇതിന് 1 വോൾട്ട് ഉണ്ട് നിങ്ങൾ അതിനെ കൂടുതൽ ലളിതമാക്കുന്നു തികഞ്ഞ കണ്ടക്ടർ ഇപ്പോൾ ഞാൻ നിങ്ങളോട് എന്താണ് പറയുക എന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും വോൾട്ടേജ് ഈ വയറിന് ഉപരിതല വലത് ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും ചാർജുകൾ ഉണ്ട് ഇത് ഒരു ആണ് ഇത് രണ്ടാണ് ഇത് ഒരു റിയലിസ്റ്റിക് ഒബ്ജക്റ്റാണ് ഇത് ഒരു വയർ ആണ് ഇതിന് കുറച്ച് ഉപരിതല വിസ്തീർണ്ണമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പ്രശ്നം ലളിതമാക്കാം കാരണം ചുറ്റും മറ്റൊന്നും ഇല്ല എല്ലാ ചാർജും ചുറ്റളവിൽ തുല്യമായും സമമിതിയിലും വിതരണം ചെയ്യും അതിനാൽ ഉപരിതലത്തിൽ ഇടപെടുന്നതിനുപകരം നമുക്ക് ജീവിതം ലളിതമാക്കാനും ഒരു വരി കൈകാര്യം ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ശരിയായ പ്രതലം ലഭിക്കണമെങ്കിൽ ശരിയായ ചാർജ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചുറ്റളവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ഗുണിക്കണം അതിനാൽ ഞങ്ങൾ ഒരു ലൈൻ ചാർജ് കൈകാര്യം ചെയ്യും ഇപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ എന്താണ് സാധ്യതയെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് നിയമം ഉപയോഗിക്കും അതെ ഗോസിന്റെ നിയമങ്ങളിൽ നിന്ന് ശരിയാണ് ഇവിടെയുള്ള എല്ലാ ചെറിയ പോയിന്റുകളിൽ നിന്നുമുള്ള സംഭാവനകൾ സംഗ്രഹിക്കുക അതിനാൽ ഞാൻ ഇവിടെ എഴുതിയ ഈ സമവാക്യം നിങ്ങൾക്ക് r എന്ന പോയിന്റിൽ വോൾട്ടേജ് നൽകുന്നു കാരണം ഈ മുഴുവൻ നീളത്തിലും എനിക്ക് ധാരാളം ചെറിയ ചെറിയ ചാർജുകൾ ഉണ്ട് ഇത് ഒരു സംഗ്രഹമായിരിക്കില്ല അത് ഒരു അവിഭാജ്യ അവകാശമായിരിക്കും അതിനാൽ ഇവിടെ എന്താണ് റോ നിങ്ങൾ അതിനെ എന്ത് വിളിക്കും വിദ്യാർത്ഥി ലൈൻ ചാർജ് ലൈൻ ചാർജ് ഡെൻസിറ്റി ശരിയാണ് അതിനാൽ എന്റെ ഡിനോമിനേറ്ററിൽ ഉള്ളത് ഭൌതികമായി എന്തായിരിക്കണം വിദ്യാർത്ഥി ദൂരം ചാർജിനും പോയിന്റിനും ഇടയിലുള്ള ദൂരം അതാണ് എനിക്ക് മൊത്തം സാധ്യതകൾ നൽകുന്നത് കാരണം ഈ കൂട്ടാളികളിൽ ഓരോരുത്തരുടെയും എല്ലാ സാധ്യതകളുടെയും അവിഭാജ്യഘടകമാണ് മൊത്തത്തിലുള്ള സാധ്യത കൂടാതെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ മൂലധനം R എന്നത് യൂക്ലിഡിയൻ ദൂരം മാത്രമാണ് അതിനാൽ x y z ഇവ നിരീക്ഷക പോയിന്റുകൾ ശരിയാണ് പ്രൈം കോർഡിനേറ്റുകൾ എന്തിനുമായി യോജിക്കുന്നു വിദ്യാർത്ഥി ഉറവിടം ഉറവിടം വലത് ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ഇന്റഗ്രേഷൻ റൈറ്റ് എന്ന വേരിയബിളിനെ ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ പരിമിതികളും ഇവയാണ് അതിനാൽ ചാർജുകൾ ശരിയായിരിക്കുന്ന വയർ സഹിതമുള്ള പോയിന്റുകളെയാണ് അവ സൂചിപ്പിക്കുന്നത് അതിനാൽ പ്രൈം കോർഡിനേറ്റുകൾ സോഴ്സ് പോയിന്റുകളാണ് ഇതാണ് നിരീക്ഷക പോയിന്റ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നത്തെ ഒരു തരത്തിൽ അഭിനന്ദിക്കാം ഇവിടെ നിൽക്കുന്ന ഈ നിരീക്ഷകൻ സാധ്യതകൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനായി മറ്റെല്ലാ വേരിയബിളുകളുടെയും പ്രവർത്തനമെന്ന നിലയിൽ എനിക്ക് പൊട്ടൻഷ്യൽ നൽകുന്ന ഈ പദപ്രയോഗത്തിലേക്ക് ഞങ്ങൾ എത്തി അപ്പോൾ എന്താണ് ഒരു പ്രശ്നം എനിക്കെന്തറിയാം എനിക്ക് എന്താണ് അറിയാത്തത് ന്റെ ഒരു ഫംഗ്ഷൻ ആയി എനിക്ക് അറിയാമോ വയർ നീളത്തിന്റെ ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ എനിക്ക് ചാർജ് സാന്ദ്രത അറിയാമോ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് ഈ ഇന്റഗ്രൽ വിലയിരുത്തിയാൽ മതി എനിക്ക് V ലഭിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് അറിയാമോ എനിക്കറിയില്ല സ്ഥിരമായ വോൾട്ടേജ് ഉറവിടവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു വയർ നൽകി അതിനാൽ വയർ സഹിതമുള്ള വോൾട്ടേജ് 1 വോൾട്ട് ആണ് എന്നാൽ ഇപ്പോൾ ചാർജുകൾ എങ്ങനെ വിതരണം ചെയ്യും ഉദാഹരണത്തിന് ഞാൻ ചാർജുകൾ ഇട്ടാൽ r പ്രൈമിന്റെ ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ rho സ്ഥിരമായിരിക്കുമോ അത് ഭൌതികമായി അർത്ഥമുള്ളതാണോ നിങ്ങൾ ഞങ്ങളെ 10 ചാർജുകൾ പറയട്ടെ എന്ന് സങ്കൽപ്പിക്കുക ഞാൻ 1 2 3 4 5 6 7 8 9 10 ചാർജുകൾ ഇട്ടു ഞാൻ അവരെ ഉപേക്ഷിക്കുന്നു അവർ അങ്ങനെ തന്നെ തുടരുമോ അവർ എവിടെ പോകും വിദ്യാർത്ഥി പരസ്പരം അനുസരിച്ച് അവർ പരസ്പരം അനുസരിച്ചു നീങ്ങും എന്നാൽ അവബോധപൂർവ്വം ഏത് തരത്തിലുള്ള വിതരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവ പരസ്പരം അകന്നുപോകും അവ ലൈൻ ചാർജുകളാണ് അവർ അകന്നുപോകും അവർക്ക് ഏത് ഘട്ടം വരെ പോകാനാകും വിദ്യാർത്ഥി സന്തുലിതാവസ്ഥ വരെ സന്തുലിതാവസ്ഥ വലത് വരെ അതിനാൽ അവ കേന്ദ്രത്തിലേക്കോ അറ്റത്തിലേക്കോ ഒട്ടിപ്പിടിക്കപ്പെടുമോ വിദ്യാർത്ഥി അവസാനം അവസാനം വരെ ഞങ്ങൾ പ്രതീക്ഷിക്കും കാരണം അവസാന പോയിന്റുകളിൽ വലതുവശത്ത് നിന്ന് ശക്തിയില്ല മാത്രമല്ല സാഹചര്യം അത്ര നാടകീയമല്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ചാർജ് ശരിയല്ല അതിനാൽ ചാർജുകൾ അവിടെ കുമിഞ്ഞുകൂടും അതിനാൽ rho യഥാർത്ഥത്തിൽ നമുക്കറിയില്ല നമുക്ക് rho അറിയാമെങ്കിൽ ഈ പ്രശ്നം ലളിതമാണ് സാഹചര്യത്തെ ആശ്രയിച്ച് ഞാൻ ഈ അവിഭാജ്യ കണക്ക് സംഖ്യാപരമായോ വിശകലനപരമായോ കണക്കാക്കും എനിക്ക് വോൾട്ടേജ് ലഭിക്കും അതിനാൽ നമ്മൾ എന്തെങ്കിലും പരിഹരിക്കാൻ തുടങ്ങുന്നതിനും വിശദാംശങ്ങളിൽ നഷ്ടപ്പെടുന്നതിനും മുമ്പ് അറിയാവുന്നതും ശരിയായി അറിയാത്തതുമായതിനെ നാം അഭിനന്ദിക്കണം അതിനാൽ ഒന്നാമതായി സ്ഥലത്തിന്റെ പ്രവർത്തനമായി ഞാൻ Rho കണ്ടെത്തേണ്ടതുണ്ട് പ്രശ്നം ലളിതമാണെന്ന് ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഞാൻ അത് ഈ സമവാക്യത്തിലേക്ക് പ്ലഗ് ചെയ്ത് വോൾട്ടേജ് കണ്ടെത്തും എല്ലാ സമഗ്ര സമവാക്യങ്ങളിലും ഈ പൊതുതത്ത്വം പ്രയോഗിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും ഞാൻ യഥാർത്ഥത്തിൽ അത്ര ശ്രദ്ധിക്കാത്ത ചില ഇന്റർമീഡിയറ്റ് വേരിയബിൾ ഉണ്ടാകും ഇവിടെയുള്ള ഈ നിരീക്ഷകന് സാധ്യതകൾ അറിയാൻ ആഗ്രഹമുണ്ട് ലൈൻ ചാർജ് ഡെൻസിറ്റി ശരി എന്താണെന്നതിൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് താൽപ്പര്യമില്ല അതിനാൽ യഥാർത്ഥ വോൾട്ടേജ് പരിഹരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിളിനായി പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ അത് ഒരു തന്ത്രമാണ് അതിനാൽ ഇവിടെ അജ്ഞാതമായത് rho ആണ് എന്താണ് അറിയപ്പെടുന്നത് ഈ സ്ഥിരമായ കാര്യം സ്ഥിരമായ വോൾട്ടേജ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് മതിയായതുണ്ടോ 1 വോൾട്ട് സ്രോതസ്സിലേക്ക് ഞാൻ ബന്ധിപ്പിച്ച ഒരു വയർ ചിന്തിക്കുക എന്ന് തോന്നുന്നു തത്വത്തിൽ അത് ശരിയായിരിക്കണം എന്നാൽ ഈ സമവാക്യം നോക്കുമ്പോൾ ഇത് അൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നുന്നു ഇത് എങ്ങനെ കണ്ടെത്തും അതിനാൽ എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും പിടിച്ചെടുക്കുന്ന സമവാക്യങ്ങളുടെ ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരേണ്ടതുണ്ട് അതിനാൽ എനിക്ക് പ്രാഥമികമായി നൽകിയിരിക്കുന്നത് വോൾട്ടേജ് സ്ഥിരമായ 1 വോൾട്ടാണ് എന്നതാണ് വോൾട്ടേജ് ഒരു വോൾട്ട് എവിടെയാണ് 1 വോൾട്ടേജ് എന്ന് അറിയപ്പെടുന്ന അത് എവിടെയാണ് ബഹിരാകാശത്ത് എല്ലാം 1 വോൾട്ട് ആണെന്ന് അറിയപ്പെടുന്നു വിദ്യാർത്ഥി ഒപ്പം കൂടാതെ എന്തിന് ഇടയിൽ എന്തുപറ്റി വിദ്യാർത്ഥി എക്വിപൊട്ടൻഷ്യൽ Equipotential ഇത് ഒരു തുല്യശക്തിയാണ് അതിനാൽ എല്ലായിടത്തും ഞാൻ വയർ വോൾട്ടേജിൽ ഏതെങ്കിലും പോയിന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 1 വോൾട്ടേജ് ശരിയാകും അതിനാൽ ഇവിടെയുള്ള ഈ സമവാക്യത്തിൽ ഞാൻ ഈ സമവാക്യം എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ മൂലധനം R എന്നത് ഒരു പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് എഴുതിയിരിക്കുന്നത് ഇത് ഉറവിടവും നിരീക്ഷക പോയിന്റും തമ്മിലുള്ള ദൂരമാണ് സോഴ്സ് പോയിന്റിൽ ചോയ്സ് ഇല്ല ലൈൻ ചാർജിനൊപ്പം സോഴ്സ് പോയിന്റ് ഉറപ്പിച്ചിരിക്കുന്നു അതിനാൽ എന്റെ നിരീക്ഷക പോയിന്റ് എവിടെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നതിൽ എനിക്ക് ഇവിടെ 1 ഡിഗ്രി സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ഞാൻ അത്യാഗ്രഹിയാകില്ല ഈ അവസരത്തിൽ വയർ വിട്ട് ഇവിടെയുള്ള സാധ്യതകൾ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് അത്യാഗ്രഹം ഉണ്ടാകരുത് r എന്നത് ഈ പോയിന്റായിരിക്കണമെന്ന് നമുക്ക് ഉറപ്പിക്കരുത് കാരണം ഈ സമവാക്യം ഞാൻ എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് നോക്കാം എനിക്ക് വോൾട്ടേജ് അറിയാവുന്ന ഒരു ഘട്ടത്തിൽ ഈ r തിരഞ്ഞെടുക്കാം അതിനാൽ y അക്ഷത്തിൽ ആയിരിക്കാൻ ഞാൻ ഈ r തിരഞ്ഞെടുത്തെങ്കിൽ അപ്പോൾ ഈ ബിന്ദുകളിലൊന്നിനെ ഞാൻ എങ്ങനെ വിശേഷിപ്പിക്കും y അക്ഷത്തിൽ പോകുന്ന ഒരു ബിന്ദുവിന്റെ ഒബ്ബറിന്റെ x y z കോർഡിനേറ്റുകൾ എന്തായിരിക്കും വിദ്യാർത്ഥി 0 വ്യത്യാസപ്പെടും അതിനാൽ ഇത് എന്റെ r ആണ് ഈ പോയിന്റുകൾക്ക് ശരിയായ സാധ്യതകൾ എനിക്കറിയാം അപ്പോൾ ഈ സമവാക്യത്തിന്റെ ഇടതുവശം അത് എന്തായിത്തീരും ഈ സമവാക്യം ഇവിടെയുണ്ട് ഈ പോയിന്റുകൾക്ക് അതിന്റെ ഇടതുവശം എന്താണ് വിദ്യാർത്ഥി 1 1 എനിക്കറിയാം ഇത് 1 വോൾട്ട് ശരിയാണ് അതിനാൽ 1 എന്നത് L കൂടാതെ അവിഭാജ്യത്തിന് തുല്യമാണെന്ന് ഞാൻ എഴുതാം നമുക്ക് ഇത് ശരിയാക്കാം മറ്റെല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത് x ഉം y ഉം 0 ആണ് ഇപ്പോൾ നമുക്ക് ഇത് അവഗണിക്കാം അതിനാൽ ഇത് ഈ രണ്ടിന്റെയും പ്രവർത്തനമാണ് വേരിയബിളുകൾ അതിനാൽ r ഇതുപോലെയാകാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ സംഭവിച്ച മറ്റൊരു നല്ല കാര്യം ശ്രദ്ധിക്കുക ഈ ഡിനോമിനേറ്റർ അത് എപ്പോഴെങ്കിലും 0 ലേക്ക് പോകുമോ ഇല്ല കാരണം ഉറവിടങ്ങൾ കണ്ടക്ടറിന്റെ ഉപരിതലത്തിലാണെന്നും ഞാൻ തിരഞ്ഞെടുത്ത r കണ്ടക്ടറുടെ വലതുവശത്തെ അച്ചുതണ്ടിലാണെന്നും ഞാൻ പറഞ്ഞതിനാൽ ശരിയാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് ഈ സാഹചര്യത്തിൽ ഒരു അവകാശം അതിനാൽ 0 ന് തുല്യമായ ഇത് ഒരിക്കലും സംഭവിക്കില്ല നമുക്ക് അത് ആവശ്യമാണ് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ കൊണ്ട് ഹരിക്കുന്നു അതിനാൽ മോശമായ ഒന്നും സംഭവിക്കാത്ത ഒരു സമവാക്യത്തിലേക്ക് വന്നാൽ ഒന്നും പൊട്ടിത്തെറിക്കുന്നില്ല എന്ന ഏകത്വമില്ല വിദ്യാർത്ഥി സർ ഞങ്ങൾ ഉപരിതലം എടുക്കുകയാണ് ഉപരിതലത്തിൽ കാരണം ചാർജുകൾ പോകുമെന്നും അല്ലാത്ത ഉപരിതലത്തിലേക്ക് ഒഴുകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥി ഞങ്ങൾ ഏകദേശം കണക്കാക്കുന്നില്ല അല്ല ഞങ്ങൾ ചാർജുകൾ ഉപരിതലത്തിലായിരിക്കാൻ ഏകദേശം കണക്കാക്കുന്നു ഒരു റിയലിസ്റ്റിക് സാഹചര്യത്തിൽ അവ കണ്ടക്ടർ വലതുവശത്തെ ഉപരിതലത്തിൽ മുഴുവൻ പുരട്ടും പക്ഷേ അവ സമമിതിയായി വിതരണം ചെയ്യും അതിനാൽ ഒരു 2 ഡൈമൻഷണൽ ഉപരിതല വിതരണവുമായി ഇടപെടുന്നതിനുപകരം ഞാൻ എന്തുകൊണ്ട് ഒരു ലൈൻ ചാർജ് കൈകാര്യം ചെയ്തുകൂടാ കൂടാതെ ശരിയായ ഉപരിതലം ലഭിക്കുന്നതിന് ഞാൻ സാധാരണവൽക്കരിക്കപ്പെട്ടുവെന്ന് എനിക്കറിയാം കാരണം അത് തന്നെയായിരിക്കും എല്ലായിടത്തും ആവർത്തിക്കുക അതിനാൽ ഞങ്ങളുടെ കണക്കുകൂട്ടൽ ലളിതമാക്കാൻ ചാർജുകൾ ഒരു വരിയിലാണെന്ന് നടിക്കാം അത് ലളിതമാക്കാൻ അതിനാൽ വൈദ്യുതകാന്തികതയിലുടനീളം ഇത്തരത്തിലുള്ള സൌകര്യപ്രദമായ അനുമാനങ്ങൾ നിങ്ങൾ കണ്ടെത്തും അല്ലാത്തപക്ഷം നിങ്ങൾ ഒരു 2 അല്ലെങ്കിൽ 3 മാന സമവാക്യം പരിഹരിക്കും യഥാർത്ഥ ഭൌതികശാസ്ത്രം 1 ഡൈമൻഷണൽ മാത്രമായിരിക്കുമ്പോൾ കൂടാതെ നമുക്ക് ഈ അനുമാനം നടത്താം കാരണം ഈ കറന്റ് ഞാൻ അർത്ഥമാക്കുന്നത് ഈ വയർ ശൂന്യമായ സ്ഥലത്ത് കിടക്കുന്നു എന്നാണ് അതിനാൽ തീറ്റ റൈറ്റ് ഫംഗ്ഷൻ എന്ന നിലയിൽ ചാർജുകൾ സമമിതിയായി വിതരണം ചെയ്യും അതിനാൽ അതാണ് ഞങ്ങൾ വിടുന്നത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടത് നിങ്ങളുടെ ആദ്യത്തെ സമഗ്ര സമവാക്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു സമഗ്ര സമവാക്യം എന്ന് വിളിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സമവാക്യം ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ അജ്ഞാതമായത് ഈ സാഹചര്യത്തിൽ അജ്ഞാതമാണ് അജ്ഞാതമായത് ഒരു അവിഭാജ്യ ചിഹ്നത്തിനുള്ളിൽ ഇരിക്കുന്നതാണ് അതിനാലാണ് ഇതിനെ സമഗ്ര സമവാക്യം എന്ന് വിളിക്കുന്നത് അതിനാൽ ഇത് പല തരത്തിലുള്ള സമഗ്ര സമവാക്യങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് അതിനാൽ സമഗ്രമായ സമവാക്യങ്ങളുടെ തരങ്ങളിലേക്ക് ഞങ്ങൾ ഒരു ചെറിയ വഴിമാറിനടക്കും അതിനാൽ ഞങ്ങൾ മുകളിൽ നിന്ന് ആരംഭിക്കും അതിനാൽ ഞങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു ഫ്രെഡ്ഹോം അവിഭാജ്യ സമവാക്യമാണ് ഇത് ആദ്യ തരത്തിലുള്ളതാണ് അതിനാൽ ഇവിടെയുള്ള ഈ കെയെ കേർണൽ എന്ന് വിളിക്കുന്നു ഇത് ഇവിടെ അജ്ഞാതമാണ് സംയോജനത്തിന്റെ പരിധികൾ ശരിയായി നിശ്ചയിക്കുമ്പോൾ അത് നമുക്ക് ഒരു ഫ്രെഡ്ഹോം സമഗ്ര സമവാക്യം നൽകുന്നു അപ്പോൾ നിങ്ങൾക്ക് 2 ആം തരത്തിലുള്ള ഒരു ഫ്രെഡ്ഹോം ഇന്റഗ്രൽ സമവാക്യവും ഉണ്ട് എന്താണ് വ്യത്യാസം വിദ്യാർത്ഥി അജ്ഞാതൻ അജ്ഞാതമായത് അവിഭാജ്യ ചിഹ്നത്തിനകത്തും പുറത്തും വലതുവശത്തും അകത്തും പുറത്തും വലത്തുമുണ്ട് അതിനാൽ അകത്തും പുറത്തും ഇത് ഇൻ മാത്രമാണ് പിന്നീട് കോഴ്സിൽ ഞങ്ങൾ രണ്ടും കാണും അതായത് ഞങ്ങൾ ഇതിനകം ആദ്യത്തേത് കണ്ടു പിന്നീട് കോഴ്സ് രണ്ടാമത്തേതും കാണും അതിനാൽ ഇവ വളരെ വേഗം ഉപയോഗിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല കൂടാതെ രണ്ടാമത്തെ സമവാക്യത്തിന് ഒരു പാരാമീറ്റർ കൂടി വന്നതായി ഞാൻ ശ്രദ്ധിക്കുന്നു അത് ഈ ഗൈ ലാംഡയാണ് അതിനാൽ അജ്ഞാതമാണ് നിങ്ങൾക്ക് ഇത് ഒരു ഐജൻവാല്യൂ പ്രശ്നത്തിന് തുല്യമായി കണക്കാക്കാം നിങ്ങൾ ഒരു ഈജൻവാല്യൂ പ്രശ്നം എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് എഴുതുന്നത് നിങ്ങൾ എഴുതുന്നു നിങ്ങൾ ഈ സമവാക്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് x അറിയില്ല നിങ്ങൾക്കറിയില്ല നിങ്ങൾ രണ്ടിനും ഓരോന്നായി പരിഹരിക്കുന്നു അതിനാൽ രണ്ട് അജ്ഞാതങ്ങളുള്ള അത്തരം സമവാക്യങ്ങൾ ഞങ്ങൾ നേരിട്ടു അതിനാൽ ഈ പരാമീറ്ററും അജ്ഞാതമായിരിക്കുന്നതിന്റെ സാമാന്യവൽക്കരണമാണിത് നിങ്ങൾക്ക് ഇത് ഒരു ഐജൻവാല്യൂ ആയി കണക്കാക്കാം അതിനാൽ ഇവ രണ്ടും ഫ്രെഡ്ഹോം അവിഭാജ്യ സമവാക്യങ്ങളാണ് ഞങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇവയിൽ പലതവണ പ്രത്യക്ഷപ്പെടുന്നു ഈ കോഴ്സിൽ നമ്മൾ കാണാത്ത മറ്റൊരു തരത്തിലുള്ള അവിഭാജ്യ സമവാക്യമുണ്ട് പക്ഷേ അവ എഞ്ചിനീയറിംഗിലും സാമ്പത്തിക ശാസ്ത്രത്തിലും പോലും സംഭവിക്കുന്നു ഫ്രെഡ്ഹോം ഇന്റഗ്രൽ സമവാക്യത്തിന് ഏതാണ്ട് സമാനമായ വോൾട്ടേറ ഇന്റഗ്രൽ സമവാക്യം എന്നാണ് ഇതിനെ വിളിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യാസം കണ്ടെത്താൻ കഴിയുമോ വിദ്യാർത്ഥി പരിധി വേരിയബിളാണ് സംയോജനത്തിന്റെ പരിധികളിൽ ഒന്ന് വേരിയബിൾ അവകാശമാണ് അതിനാൽ എനിക്ക് ഇവിടെ x ഉണ്ട് x ഇവിടെ മറ്റെല്ലാം സമാനമാണ് അതിനാൽ എഞ്ചിനീയറിംഗ് സാഹിത്യത്തിൽ നിങ്ങൾ കാണുന്ന രണ്ട് തരത്തിലുള്ള സമഗ്ര സമവാക്യങ്ങളാണിവ ഈ എഫ് ഇവിടെ കൂടുതൽ അറിയപ്പെട്ടിരുന്നെങ്കിൽ അല്ലാത്തപക്ഷം നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഈ എഫ് പൂജ്യമായിരിക്കാം അല്ലെങ്കിൽ അത് ആയിരിക്കും അല്ലെങ്കിൽ അത് പൂജ്യമല്ലാത്തതാകാം ഇത് സീറോ സ്റ്റാൻഡേർഡ് ടെർമിനോളജി ആണെങ്കിൽ ഞങ്ങൾ അതിനെ ഒരു ഏകീകൃത സമവാക്യം എന്ന് വിളിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ ഒരു നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കും അതിനാൽ ഞാൻ നോക്കുമ്പോൾ മുമ്പത്തെ പേജിൽ വലതുവശത്ത് ഉണ്ടായിരുന്ന സമവാക്യം പറയാം അതിനാൽ എനിക്ക് ഉണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ അവിഭാജ്യ സമവാക്യം അപ്പോൾ ബോർഡിൽ ഉള്ള ഈ നാല് സമവാക്യങ്ങളിൽ നിന്ന് ഇവയിൽ ഏതാണ് അത് ഇഷ്ടപ്പെടുന്നത് ഒരു പോലെ തോന്നുന്നു അതിനാൽ ഇത് പൂർണ്ണമാണ് ഈ സമഗ്ര സമവാക്യത്തിന്റെ പൂർണ്ണമായ വിവരണം എന്താണ് അപ്പോൾ ആദ്യം ഫ്രെഡ്ഹോം എന്തുകൊണ്ട് എന്തുകൊണ്ട് വോൾട്ടറ അല്ല പരിധികൾ അറിയാം ശരിയാണ് അതിനാൽ ഇതൊരു ഫ്രെഡ്ഹോം ഇന്റഗ്രൽ സമവാക്യമാണ് IE ഏത് തരത്തിലുള്ളതാണ് ആദ്യത്തെ തരത്തിലുള്ള ശരിയാണ് അജ്ഞാതമായത് അവിഭാജ്യ ചിഹ്നത്തിനുള്ളിൽ മാത്രമേ ദൃശ്യമാകൂ രണ്ടാമത്തേതിൽ അതും പുറത്താണ് അത് ആദ്യതരം കൂടാതെ ഇത് ഏകതാനമാണോ അതോ ഏകതാനമല്ലാത്തതാണോ ഇത് ഏകതാനമല്ലാത്തത് എന്തുകൊണ്ട് കാരണം ഇവിടെ എന്താണ് ഉള്ളത് വിദ്യാർത്ഥി V വി സാധ്യതയുള്ള അവകാശം അതിനാൽ ഇത് ഏകതാനമല്ല ഈ കേസിൽ എന്റെ psi എന്താണ് ഇയാളും ഇയാളും തമ്മിൽ ഒരു സാമ്യം വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ psi എന്താണ് വിദ്യാർത്ഥി Rho എന്താണ് എന്റെ കെർണൽ കെ വിദ്യാർത്ഥി 1 by R 1 ന്റെ R എനിക്ക് വേറെ എന്തുണ്ട് f ശരിയാണ് f എന്നത് V ആണ് അത് നിങ്ങളുടെ സമഗ്ര സമവാക്യങ്ങളുടെ പൂർണ്ണ വിവരണം പൂർത്തിയാക്കുന്നു അതിനാൽ ഞങ്ങൾ മൂന്നും വ്യക്തമാക്കേണ്ടതുണ്ട് ഫ്രെഡ്ഹോം അല്ലെങ്കിൽ വോൾട്ടേറ ആദ്യ തരം അല്ലെങ്കിൽ രണ്ടാമത്തെ തരം ഏകതാനമായ അല്ലെങ്കിൽ ഏകതാനമല്ലാത്തത് തുടർന്ന് നിങ്ങളുടെ സമഗ്ര സമവാക്യം പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഇന്റഗ്രലുകൾ 1 ഡൈമൻഷനിൽ ഒരു അവിഭാജ്യമായി എഴുതിയിരിക്കുന്നു എന്നാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവ 2 ഡൈമൻഷനുകളിലും 3 ഡൈമൻഷനുകളിലും ഇന്റഗ്രലുകൾ ആകാം പദങ്ങൾ ഒന്നുതന്നെയായിരിക്കും